കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ അവലോകനം II ഹലോ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന നമ്മളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിലേക്ക് സ്വാഗതം നമ്മൾ മൊഡ്യൂൾ 17 ആണ് നോക്കുന്നത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ അവലോകനം II നെക്കുറിച്ച് പഠിക്കുന്നു അവസാന ക്ലാസ്സിൽ സർഫസ് മോഡലുകളെക്കുറിച്ചും അവയുടെ നിർമ്മാണം എന്നിവയെക്കുറിച്ചും ചില കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ശ്രമിച്ചു പ്രത്യേകിച്ച് ക്യാഡ് സോഫ്റ്റ്വെയർ സർഫസ് സൃഷ്ടിക്കുന്നതിനുള്ള രണ്ട് അടിസ്ഥാന രീതികൾ ഉപയോഗിക്കുന്നു ആദ്യത്തേത് ആരംഭിക്കുന്നത് വളഞ്ഞ രേഖയുടെ നിർമ്മാണത്തോടെയാണ് അതിൽ നിന്ന് ത്രിമാന പ്രതലങ്ങൾ മുഴുവൻ നിർമ്മിക്കുന്നു രണ്ടാമത്തേത് സർഫസ് പോളുകളുടെയും കൺട്രോൾ പോയിന്റുകളുടെയും കൃത്രിമത്വം ഉപയോഗിച്ച് സർഫസിൻ്റെ നേരിട്ടുള്ള സൃഷ്ടിയും അതുകൂടാതെ ആളുകൾ ഈ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴോ പാക്കേജുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോഴോ അത് കമ്പ്യൂട്ടേഷണൽ നേട്ടമാണ് രണ്ടാമത്തെ രീതി ഏറ്റവും ശക്തമാണ് കാരണം നിങ്ങൾക്ക് ഒറ്റപ്പെട്ട വിഭിന്നമായ പോയിന്റുകൾ ഉണ്ടാകും കൂടാതെ വ്യത്യസ്ത തരം വളവുകൾ ഉപയോഗിച്ച് സർഫസ്കൾ നിർമ്മിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു കൂടാതെ അവസാന ക്ലാസുകളിൽ നമ്മൾ നോക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ എല്ലാ ഡാറ്റാ പോയിന്റുകളും ഒരൊറ്റ പ്ലെയിനിൽ കിടക്കുകയാണെങ്കിൽ അത് ഒരു നിരപ്പായ സർഫസും ആണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഈ പോയിൻറുകൾക്ക് കുറുകെ വരികൾ നിർമ്മിക്കാനും മറ്റ് വരികൾ അതിനു സമാന്തരമായി വരയ്ക്കാനും ശ്രമിക്കുകയാണ് ഒരു സർഫസ് ശരിക്കും നിർമ്മിക്കാൻ കഴിയുന്ന വഴിയാണിത് നമ്മൾ ഇത് പരാമീറ്റർ രൂപത്തിലാണ് എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്നു ഇത് ഒറ്റപ്പെട്ട വിഭിന്നമായ പോയിന്റുകൾ തിരഞ്ഞെടുത്ത് അതിനെ ഇന്റർപോളേറ്റ് ചെയ്യാനും സർഫസ്കൾ നിർമ്മിക്കാനും ശ്രമിക്കുന്നു കൂടാതെ നിങ്ങൾക്ക് പോയിന്റ് പി 0 പി 1 പി 2 എന്നിവ ഉണ്ടെങ്കിൽ ഒരു പരാമെട്രിക് ഫോം ഏതെങ്കിലും പുതിയ പോയിന്റ് നിങ്ങളുടെ പി 0 പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ പി ഒരാൾക്ക് നിർമ്മിക്കാൻ കഴിയും പി 1 പി 0 യുമായി വ്യത്യാസപ്പെടുന്നു പി 2 യുമായി പി 0 വ്യത്യാസപ്പെടുന്നു അതിനാൽ പി 0 ഒരു റഫറൻസ് പോയിന്റായി നമ്മൾ മറ്റൊരു പോയിന്റ് പി 1 പി 2 എടുക്കും അതിനാൽ നമുക്ക് എല്ലായ്പ്പോഴും ഈ മൂന്ന് പോയിൻ്റിലൂടെ കടന്നുപോകുന്ന ഒരു നിരപ്പായ സർഫസ് നിർമ്മിക്കാൻ കഴിയും നാല് പോയിന്റുകൾ അധിക വിവരങ്ങളാണ് എന്നാൽ മൂന്ന് പോയിന്റുകൾ ഒരു പ്ലെയിനും സർഫസിൻ്റെ നോർമലും കടന്നുപോകാൻ പര്യാപ്തമാണ് ഈ മൂന്ന് പോയിന്റുകളും എക്സ് പ്ലെയിനിലോ വൈ പ്ലെയിനിലോ ആയിരിക്കണമെന്നില്ല പക്ഷേ അത് വ്യത്യസ്ത പ്ലെയിനുകളിൽ ആകാം അതിനാൽ ഈ എക്സ് വൈ ഇസഡ് വ്യത്യസ്ത തരം സ്ഥലങ്ങളിലൂടെ നമ്മൾക്ക് ഒരു പ്ലെയിനും സർഫസിൻ്റെ നോർമലും കടത്തിവിടാൻ കഴിയും നിങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പി 1 പി 0 പോയിന്റ് ക്രോസ് പ്രൊഡക്റ്റ് പി 2 പി 0 പോയിന്റുകൾഅതിൻ്റെ നോർമത്സ് എന്നിവ പ്രകാരം കിട്ടും അതിനാൽ കമ്പ്യൂട്ടറിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ സോഫ്റ്റ്വെയറിൽ ക്ലിക്കുചെയ്യുമ്പോൾ ഈ പോയിൻ്റ്ആ പോയിന്റ് മറ്റൊരു പോയിന്റ് ഈ പോയിന്റുകൾ എടുക്കുകയും നിങ്ങളുടെ സോഫ്റ്റ്വെയർ ആ പോയിന്റുകൾക്കിടയിൽ ഈ ഇന്റർപോളേഷൻ ചെയ്ത് ഒരു സർഫസ് നിർമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ സർഫസ് നിരപ്പായ സർഫസ് ആകാം അല്ലെങ്കിൽ അത് ഒരു വളഞ്ഞ പ്രതലമാകാം നിരപ്പായ സർഫസൂമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളഞ്ഞ സർഫസ് നിർമ്മാണം കുറച്ചുകൂടി സങ്കീർണ്ണവും പ്രയാസകരവുമാണ് ഈ വളഞ്ഞ സർഫസ് ഇന്റർപോളേഷനുകളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ബെസിയർ കർവുകൾ കൂൺസ് സർഫസ് തുടങ്ങിയ മറ്റ് ആശയങ്ങൾ വരുന്നു അത് നിരപ്പായ സർഫസുമാണെങ്കിൽ അത് വളരെ നേരെയുള്ള സമീപനമാണ് സർഫസുകൾ നിർമ്മിക്കുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം പ്രാദേശികമായി നിരപ്പായ പ്രതലങ്ങളെ റൂൾഡ് സർഫസ് എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് ത്രിമാന സ്ഥലത്ത് കുറച്ച് കർവ് ഉണ്ടെന്ന് എടുക്കാം അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കർവ് ഉണ്ട് ഈ കർവുകൾ സമാന്തരമായിരിക്കാം ആകാതിരിക്കാം അവ പരസ്പരം ഒരുപോലെ വേണേലും ആകാം അത്തരം സന്ദർഭങ്ങളിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം ഓരോ പോയിൻ്റും ചേർക്കാം എന്നതാണ് ഒരുപക്ഷേ ഒരു വരിയിൽ ചേരുന്നതിന് ഈ പോയിന്റുകൾ തിരഞ്ഞെടുക്കുക അതുപോലെ വരിയിൽ ചേരാൻ മറ്റൊരു പോയിന്റ് തിരഞ്ഞെടുക്കുക അതുപോലെ വരിയിൽ ചേരുന്നതിന് മറ്റൊരു പോയിന്റ് തിരഞ്ഞെടുക്കുകഅങ്ങനെ ചെയ്യുക അത്തരത്തിലുള്ള ഒബ്ജക്റ്റ് നിർമ്മിക്കാൻ പോകുകയാണെങ്കിൽ അതിനെ നമ്മൾ റൂൾഡ് സർഫസ് എന്ന് വിളിക്കുന്നു ഈ വളവുകൾ ഏകപക്ഷീയവും ആകാം ഉദാഹരണത്തിന് നമുക്ക് ഒന്ന് നേർരേഖയും മറ്റൊന്ന് ഒരു കർവും ആകാം കൂടാതെ ഈ മുഴുവൻ നേർരേഖയും എൻ എണ്ണമുള്ള തുല്യ ഭാഗങ്ങളായി വിഭജിക്കാൻ നമ്മൾ തീരുമാനിച്ചു അതുപോലെ മറ്റേ കർവും നമ്മൾ അതിനെ എൻ തുല്യ ഭാഗങ്ങളായി വിഭജിക്കാൻ പോകുന്നു എന്നിട്ട് ഇവയിൽ ഓരോന്നിലും ചേർക്കുക അത് ഒരു റുൾഡ് സർഫസ്സിലേക്ക് നോക്കുന്നതിനുള്ള ലളിതമായ മാർഗ്ഗത്തെ പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ ഈ റൂൾഡ് സർഫസ്കൾ ചെയ്യുമ്പോൾ ഇവ എല്ലായ്പ്പോഴും നേർരേഖകളാണ് അതിനാൽ രണ്ട് സ്പേസ് വളവുകളോ റെയിലുകളിലോ ചേർക്കുന്നതിലൂടെ ഒരു റുൾഡ് സർഫസ് ഉണ്ടാകുന്നു രണ്ട് വളവുകളെ എഫ് ഓഫ് യുഒരു പാരാമെട്രിക് വ്യതിയാനവും ജി ഓഫ് യുവും എന്ന് സൂചിപ്പിച്ചാൽ നിങ്ങൾക്ക് ഈ യു പാരാമീറ്ററിനെ സമയത്തിന്റെ ഫംഗ്ഷൻ ആയി ചിന്തിക്കാം ആ പോയിന്റിൻെറ സ്ഥാനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വളവിലൂടെ നീങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ അത് നിർവചിക്കുന്നത് പോലെ ഒരു പ്രത്യേക സർഫസിൽ ഒരു വളഞ്ഞ സർഫസിൽ പോകേണ്ടതുണ്ട് ഒരുപക്ഷേ അത് ഒരു ഗോളത്തിൽ ഉരുളുന്നുണ്ടാകാം അത് ഒരു എലിപ്സോയിഡിൽ ഉരുളുന്നതും മറ്റും ആകാം അതിനാൽ ആ പാരാമെട്രിക് വ്യതിയാനം യു ആണ് കൂടാതെ പാരാമെട്രിക് വ്യതിയാനത്തിൽ ഒരു പ്രത്യേക കർവ് പോലെ നമ്മൾ നിർവചിക്കുന്നുഅതൊരു പ്രത്യേക ദിശയിൽ പോകുന്നു അതുപോലെ മറ്റെ കർവ് ജി ഓഫ് യു ആണ് ആ കമ്പ്യൂട്ടറിന്റെ പുറകിലുള്ള പാരാമെട്രിക് സമവാക്യം എന്താണ് ചെയ്യുന്നത് അതിനിടയിൽ നിങ്ങൾ ഏതെങ്കിലും പോയിന്റ് നിർമ്മിക്കുവാണ് ബ്ലെൻ്റിങ് ഫംഗ്ഷൻ ആയി 1 ന്യൂനം ന്യൂ ഗുണം ജി ഓഫ് യു അധികം ന്യൂ ഗുണം എഫ് ഓഫ് യു അങ്ങനെ നിങ്ങൾ എത്ര ദൂരം ആയിരിക്കും നോക്കുന്നത് അല്ലെങ്കിൽ എഫ് ഓഫ് യു ജി ഓഫ് യു എന്നിവ തമ്മിലുള്ള ദൂരം പോലെയുള്ള ഒന്ന് നോക്കുക ന്യൂ 50 ശതമാനം കണക്കിലെടുത്ത് ഒരു ഭിന്നസംഖ്യയെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ആ ഭാഗത്ത് 50 ശതമാനവും ഈ ഭാഗത്ത് 40 ശതമാനവും ആ ഭാഗത്ത് 60 ശതമാനവും ഒരു വരിയിൽ ചേർക്കുന്നതിലൂടെ ഈ രണ്ട് വളവുകളും ശരിക്കും മാപ്പ് ചെയ്യുന്നതിനും ഒരു റുൾഡ് സർഫസ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നതിനും നമ്മൾ അത്തരം വെയ്റ്റേജ് പ്രയോഗിക്കും അതിനാൽ പിന്നിലെ മുഴുവൻ ലക്ഷ്യവും ഈ രീതിയിൽ പോകുന്നു നിങ്ങൾ വരികൾ തിരഞ്ഞെടുക്കുക ഈ വളവുകളിലൂടെ കടന്നുപോകുന്ന ഒരു സർഫസ് സുഗമമായി നിർമ്മിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഉദാഹരണത്തിന് നമ്മളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഇപ്പോൾ നമ്മൾക്ക് ആ പ്രത്യേക ആകൃതിയിലുള്ള ഒരു കർവ് ഉണ്ടായിരിക്കാം ഒരുപക്ഷേ ഈ അരികിൽ ഒരു വരി കൂടി ഉണ്ടായിരിക്കാം ഇതാണ് എഡ്ജ് എന്ന് നമുക്ക് പരിഗണിക്കാം അതുപോലെയുള്ള ഒന്ന് ഇപ്പോൾ സർഫസിനെ ദ്വിമാന ലെവലിൽ സ്ഥാപിക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നു കമ്പ്യൂട്ടറിൽ പിന്നെ എങ്ങനെയാണ് എളുപ്പവഴികളിലൊന്ന് ഇത് ഈ ഡാറ്റ പോയിന്റുകൾ പിക്സൽ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു ഈ ഡാറ്റാ പോയിന്റിൽ എനിക്ക് എങ്ങനെ ഈ ഡാറ്റാ പോയിന്റിൽ ചേർക്കാനകുമെന്ന് ഇൻ്റർപൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിനാൽ വരിവരിയായി അത് നിർമ്മിക്കുകയും പ്രത്യേക തരം നിറങ്ങളാൽ നിറയ്ക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഒരു ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഒരുപക്ഷേ പേന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സർഫസ് സൃഷ്ടിക്കാൻ പോകുമ്പോൾ സമാനമായത് സംഭവിക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം കാഴ്ച്ച തലത്തിൽ വളവ് അല്ലെങ്കിൽ സർഫസ് ആ വഴികടന്നുപോകണം പക്ഷേ ആ മെഷീനിലേക്ക് നിങ്ങൾ അത് എങ്ങനെ പഠിപ്പിക്കും കർവ് ആ വഴിയിലൂടെ കടന്നുപോകണം അല്ലെങ്കിൽ ടൂൾ ബിറ്റ് നിങ്ങൾ മെഷീൻ ചെയ്യുമ്പോൾ ടൂൾ ബിറ്റ് ആ തരത്തിലുള്ള സർഫസിലൂടെ പോകേണ്ടതുണ്ട് അതിനാൽ ഈ മെഷീനുകളുമായോ ആ കമ്പ്യൂട്ടറുമായോ നാം പഠിപ്പിക്കേണ്ട ഒരു ജ്യാമിതീയ ബന്ധം ഉണ്ടായിരിക്കണം കൂടാതെ ഏതെങ്കിലും സർഫസ് മോഡലിന്റെ മുഴുവൻ ലക്ഷ്യവും ഒരു സർഫസ് നിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് നേടാനാകുന്ന ഏറ്റവും മികച്ച ഏകദേശ സാദൃശ്യം ആണ് അതിനാൽ ത്രിമാന സ്ഥലത്തുള്ള കർവുകളെ അടിസ്ഥാനമാക്കി ഈ വരികളാൽ ഒരു സർഫസ് നിർമ്മിക്കാൻ നമ്മൾക്കായിരുന്നു അത്തരം സർഫസ്കളെ നമ്മൾ റൂൾഡ് സർഫസ് എന്ന് വിളിക്കുന്നു അതിനാൽ ഒരാൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ഡാറ്റാ പോയിന്റുകളെ അടിസ്ഥാനമാക്കി പ്രത്യേക ദിശകൾ സൃഷ്ടിക്കുകയോ നീക്കുകയോ ചെയ്യുന്നതിലൂടെ ഒരു രേഖീയ ഇന്റർപോളേഷൻ നടത്താം ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഈ വരിയെ ഇരുവശത്തും തുല്യമായ ഭാഗങ്ങളായി വിഭജിച്ച് ഒരു പ്രത്യേക ആരോ അടയാളം കാണിക്കുന്നു നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ അതിനെ ലോഫ്റ്റഡ് സർഫസ് എന്ന് വിളിക്കുന്നു റൂൾഡ് സർഫസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇരുവശത്തും തുല്യമായ പോയിന്റുകൾ ഉണ്ടായിരിക്കണമെന്നില്ല എന്നാൽ സാധാരണയായി ലോഫ്റ്റർ സർഫസുകളിൽ ഈ കർവിൻ്റെ ഇരുവശത്തും തുല്യമായ പോയിന്റുകളായി വിഭജിച്ച് നേർരേഖ വെച്ച് യോജിപ്പിക്കുക അതിനാൽ നിങ്ങളുടെ റൂൾഡ് സർഫസിന്റെ ഒരു പ്രത്യേക രൂപമാണ് ലോഫ്റ്റർ സർഫസ് ഈ ലോഫ്റ്റർ പ്രതലങ്ങളിലേക്ക് നോക്കുന്നതിനുള്ള മറ്റൊരു മാർഗം ഉദാഹരണത്തിന് നമ്മൾക്ക് ഒരു പ്രത്യേക കർവുണ്ട് അത് ഒരു വശത്ത് അടച്ച കർവാണ് നമ്മൾക്ക് മറ്റൊരു തരത്തിലുള്ള അടച്ച കർവുമുണ്ട് ഇപ്പോൾ സ്പയിൻ കർവ് എന്ന് വിളിക്കുന്ന ഒരു രേഖ ഉണ്ട് അത് ഇതാണ് ഇപ്പോൾ ഞാൻ ഈ കർവിനെ ആ സ്പയിൻ കർവിലൂടെ നീക്കുകയാണെങ്കിൽ അത് ഏത് സർഫസ് ഉണ്ടാക്കിയാലും അതിനെ ലോഫ്റ്റഡ് സർഫസ് എന്നും വിളിക്കുന്നു അതിനാൽ ഈ കർവ് ഇത് ഒരു പാരാമെട്രിക് കർവ് ആണ് കാരണം ഇത് ഈ സ്ഥാനത്ത് നിന്ന് ആ സ്ഥാനത്തേക്ക് നീങ്ങുന്നു ആ കർവിന്റെ ആകൃതി വ്യത്യാസപ്പെട്ടിരിക്കാം അതിനാലാണ് നമ്മൾ ഇതിനെ പാരാമെട്രിക് കർവ് എന്ന് വിളിക്കുന്നത് ഒരുപക്ഷേ തുടക്കത്തിൽ പോയിന്റ് എയിൽ വെച്ച് അത് വൃത്താകൃതിയിൽ ആയിരിക്കാം ബി പോയിന്റിൽ ഇത് ദീർഘവൃത്താകൃതിയിലുള്ള ആകൃതിയായിരിക്കാം സി പോയിന്റിൽ ഇതിന് ഒരു നക്ഷത്ര രൂപവും മറ്റും ഉണ്ടായിരിക്കാംഅങ്ങനെ അതിനാൽ നമ്മൾ ഒരു സ്പയിൻ വളവിലൂടെ ഇത്തരത്തിലുള്ള പാരാമെട്രിക് കർവ് നീക്കുന്നു തുടർന്ന് ഒരു പ്രത്യേകതരം സർഫസ് നേടാനുള്ള അവസ്ഥയിലായിരിക്കും നമ്മൾ അത്തരത്തിലുള്ള സർഫസ്കളെ നമ്മൾ ലോഫ്റ്റഡ് സർഫസ് എന്ന് വിളിക്കുന്നു റിവോൾവ്ഡ് സർഫസ് ആണ് സർഫസിലേക്ക് നോക്കുന്നതിനുള്ള മറ്റൊരു മാർഗം ഉദാഹരണത്തിന് എനിക്ക് ഒരു കർവ് ഉണ്ട് ഒരു ആക്സിസിന് 360 ഡിഗ്രി ചുറ്റി അതിനെ കറക്കുവാണെങ്കിൽ ഒരുപക്ഷേ എനിക്ക് ഒരു പ്രത്യേക രൂപം ലഭിക്കും അതിനാൽ റിവോൾവ്ഡ് സർഫസ് ഭ്രമണം ചെയ്യുന്ന ഒരു ആക്സിസിനെ ചുറ്റിപ്പറ്റിയുള്ള ഇടം സൃഷ്ടിക്കുന്നു അതിനാൽ ഇതാണ് ആക്സിസ് അതാണ് കർവ് ഈ സോഫ്റ്റ്വെയർ പാക്കേജിനെക്കുറിച്ച് നമ്മൾ അറിയാൻ പോകുമ്പോൾ അത്തരം ഒരു റിവോൾഡ് സർഫസ് നിർമ്മിക്കുന്നതിന് ഒരു ആക്സിസ് നിർവചിക്കുക അതുപോലെ കർവ് നിർവചിക്കുക പോലുള്ള ചില കാര്യങ്ങൾ പ്രധാനമാണ് കൂടാതെ ഇസഡ് ദിശക്ക് ചുറ്റും ഞാൻ സർക്കിൾ പോലെ കറങ്ങുവാണെങ്കിൽ ചില പരമെട്രിക് വ്യതിയാനം ആർ ഓഫ് ഇസഡ് യു കോസ് ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷൻ എന്നിവയുടെ പേരിൽ കിട്ടും നമുക്ക് റിവോൾവ്ഡ് പ്രതലങ്ങൾ എന്ന് വിളിക്കുന്ന ഒബ്ജക്റ്റ് ലഭിക്കും ഇത് എല്ലായ്പ്പോഴും ആക്സിസിന് സിമ്മെട്രിക് ആയ സർഫസ് ആണ് മാത്രമല്ല ഇത് ഒരു പ്ലെയിൻ വയർ ഫോം തിരിക്കുന്നതിലൂടെ സൃഷ്ടിക്കാനാകും സാധാരണയായി നമ്മൾ പോസിറ്റീവ് റൊട്ടേഷൻ നിർവചിക്കുന്നു എതിർ ഘടികാരദിശയിൽ വസ്തുക്കളെ തിരിക്കാൻ നമ്മൾ ശ്രമിക്കും മറ്റ് സർഫസ്കളെ ടാബുലേറ്റഡ് സിലിണ്ടർ സർഫസ്കൾ എന്ന് വിളിക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഒരു പ്രത്യേക കർവുണ്ട് പ്രത്യേക ദിശയിൽ അതിനെ വലിച്ചിടുകയാണെങ്കിൽ ഒരു സർഫസായി അത് മാറും ഇത്തരത്തിലുള്ളവയെ നമ്മൾ ടാബുലേറ്റഡ് സർഫസ്കൾ എന്ന് വിളിക്കുന്നു പ്രത്യേകിച്ചും അടുത്ത ക്ലാസുകളിൽ പഠിക്കുന്ന സോളിഡ് വർക്ക്സ് സോഫ്റ്റ്വെയറിൽ എക്സ്ട്രൂഡ് അല്ലെങ്കിൽ എക്സ്ട്രൂഷൻ എന്ന ഒരു കമാൻഡ് ഉണ്ട് ആ കമാൻഡ് നിങ്ങൾ ഒരു കർവ് വരച്ചുകഴിഞ്ഞാൽ ഒബ്ജക്റ്റ് നിർമ്മിക്കുന്നതിന് കുറുകെ ഉള്ള ദിശയിൽ അത് സ്വൈപ്പു ചെയ്യാം ഇപ്പോൾ അത്തരം സർഫസ്കൾ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് ഈ സർഫസ്കളെ പ്രതിനിധീകരിക്കുന്നതിന് ഇതിലും മികച്ച മാർഗമുണ്ടോ പല ഉപയോഗത്തിലും ഈ ത്രിമാന മോഡലുകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മെഡിക്കൽ ഇമേജിംഗിനെക്കുറിച്ചോ ഉള്ള ആവശ്യങ്ങൾക്ക് ആണ് ഒരുപക്ഷേ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ ഇമേജിംഗ് സാധനമുണ്ടായിരിക്കാം വ്യത്യസ്ത വ്യുകളിൽ നിന്ന് ത്രിമാന ചിത്രങ്ങൾ നിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു സങ്കീർണ്ണമായ മെഡിക്കൽ ഇമേജുകൾ ദൃശ്യവൽക്കരിക്കാൻ ത്രിമാന വസ്തു പോലുള്ള എന്തെങ്കിലും നിർമ്മിക്കാൻ ഒരു മനുഷ്യന് സാധ്യമല്ല അതിനാൽ നമ്മൾ ഇത് കമ്പ്യൂട്ടറിലേക്ക് പഠിപ്പിക്കണം അല്ലെങ്കിൽ കുറഞ്ഞത് ഈ വ്യത്യസ്ത കാഴ്ചകൾ വായിക്കാൻ കഴിയുന്നഅത് മാപ്പ് ചെയ്യാൻ സർഫസ് നിർമിക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയറെങ്കിലും ഉപയോഗിക്കേണ്ടതുണ്ട് പിൻവശത്ത് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ഈ ഡാറ്റാ പോയിന്റുകളിലൂടെ കടന്നുപോകുന്ന ചില ഗണിതശാസ്ത്ര ഫംഗ്ഷൻസ് കൊടുക്കുന്നു കാരണം ചുവപ്പ് നീല പച്ച അല്ലെങ്കിൽ ഒരുപക്ഷേ വെള്ള കറുപ്പ് ചാരനിറത്തിലുള്ള ഗ്രേസ്കെയിൽ ഇമേജുകൾ തുടങ്ങിയ പിക്സലുകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റാ പോയിന്റുകൾ വേർതിരിച്ചിരിക്കുന്നു അതിനാൽ നമ്മൾക്ക് അവിടെ നിന്ന് കളർ കോൺട്രാസ്റ്റ് ഉണ്ട് ചില ഫംഗ്ഷനുകൾ അതിലൂടെ കടത്തിവിടാൻ നമ്മൾ ശ്രമിക്കും അതിലൂടെ ഒരു ഒബ്ജക്റ്റ് പോലെയുള്ള ഒന്ന് സൃഷ്ടിക്കാൻ എംആർഐ സ്കാൻ പോലെ സോഫ്റ്റ്വെയർ ആ ത്രിമാന ഇമേജുകൾ നിർമ്മിക്കുന്നു അതിനാൽ മെഡിക്കൽ ഇമേജിംഗിനായി ഇമേജ് ജനറേഷൻ സർഫസ് ഡാറ്റ ഒരു കൂട്ടം ഡാറ്റാ പോയിന്റുകളുടെ രൂപത്തിൽ മാത്രമേ ലഭ്യമാകൂ നമ്മൾ എല്ലായ്പ്പോഴും താൽപ്പര്യപ്പെടുന്നത് ആ ത്രിമാന ഇമേജ് നിർമ്മിക്കുക എന്നതാണ് കൂടാതെ പ്രത്യേകിച്ചും ഈ സോഫ്റ്റ്വെയർ മിക്കതും ഹെർമൈറ്റ് ബൈകുബിക് സർഫസ് നിർമ്മാണ പ്രോസസ്സറുകൾ അല്ലെങ്കിൽ ബെസിയേഴ്സ് സർഫസ്കൾ അല്ലെങ്കിൽ ബി സ്പ്ലൈൻ സർഫസ്കൾ ജനപ്രിയമായ കൂൺസ് സർഫസ്കൾ അല്ലെങ്കിൽ ഗോർഡൻ സർഫസ്കൾ എന്നിവ പോലുള്ള അടിസ്ഥാന തത്വങ്ങളിൽ പ്രവർത്തിക്കുന്നു സർഫസ്കളുമായി ബന്ധപ്പെട്ട പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഫില്ലറ്റ് സർഫസ്കൾ പോലുള്ള സർഫസ്കളിൽ വസ്തുക്കൾ മുറിക്കുന്നത് പോലെയുള്ള ഓഫ്സെറ്റ് സർഫസ്കൾ ഈ സർഫസ് നിർമ്മാണ പ്രക്രിയയെക്കുറിച്ച് ഘട്ടം ഘട്ടമായി നമുക്ക് ചില ആശയങ്ങൾ ഉണ്ടെന്ന് ഇപ്പോൾ നമ്മൾ പഠിക്കും ഒന്നാമതായി കർവുകൾ എന്ന് പേരുള്ള എന്തെങ്കിലും നിർവചിക്കേണ്ടതുണ്ട് കർവുകൾ എല്ലായ്പ്പോഴും ഒരൊറ്റ പരാമീറ്റർ പ്രാതിനിധ്യമാണ് നിങ്ങൾക്ക് എക്സിന്റെ ഒരു ഫംഗ്ഷനായി എക്സ് ഓഫ് യു ഉണ്ടായിരിക്കാം വൈ ഓഫ് യു ൻ്റെ ഒരു പാരാമെട്രിക് വ്യതിയാനം ആയിരിക്കാം വൈ ഇസഡ് യുൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കാം ഇത് ഒരു സ്പൈറൽ പോലെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരൊറ്റ പാരാമീറ്റർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ആർ തീറ്റ ഫൈ തരത്തിലുള്ള കോർഡിനേറ്റുകൾ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എക്സ് വൈ ഇസഡ് എന്ന പോയിന്റ് ഉണ്ട് അതിലൂടെ ഒരാൾക്ക് ഒരു കർവ് കടത്തിവിടാൻ കഴിയും ഒപ്പം യു എന്ന് പരാമർശിച്ച് നമ്മൾ പറയുന്ന പാരാമെട്രിക് വ്യതിയാനവും ഉദാഹരണത്തിന് ഇത് ഒരു സർക്കിൾ ആണെങ്കിൽ cos u sin u നിങ്ങളുടെ സർക്കിളിനെ നിർവചിക്കുന്നു ഇ യു ഒരു പ്രത്യേക സന്ദർഭത്തിൽ തീറ്റ കോണീയ കോർഡിനേറ്റ് ആകാം കാരണം ഇത് ഒരു ദ്വിമാന സർക്കിൾ കാര്യമാണ് അതിനാൽ ഒരു ഇസഡ് വ്യതിയാനവും ഉണ്ടാകില്ല ഇപ്പോൾ ഈ ഡാറ്റാ പോയിന്റുകളിൽ ചേരേണ്ട ഒരു കർവ് പോലുള്ള ഒന്ന് നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനർത്ഥം ഒരു പോയിൻ്റിൽ നിന്ന് മറ്റ് പോയിന്റുകളിലേക്ക് നീക്കുകയാണെങ്കിൽ ആ ടാൻജെന്റ് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് അറിയണ്ടത് എനിക്ക് ആവശ്യമാണ് ഒന്നാമതായി ഇതാണ് ആദ്യത്തെ ഡാറ്റാ പോയിന്റ് റ്റാഞ്ചൻ്റ് വിവരങ്ങൾ എനിക്കറിയില്ലെങ്കിൽ കൃത്യമായി മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും ഏഴാമത്തെയും പോയിന്റുകൾ എവിടെയാണെന്ന് എനിക്കറിയില്ല അതിനാൽ എനിക്ക് എല്ലായ്പ്പോഴും ടാൻജെന്റിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോയിന്റ് വിവരങ്ങൾ ടാൻജെന്റ് വിവരങ്ങൾ എന്നിവയിലൂടെ അടുത്ത ദിശയിലേക്ക് നീങ്ങാൻ കഴിയും അങ്ങനെ ഒരു കർവ് പോലെയുള്ള ഒന്ന് പ്രതിനിധീകരിക്കാൻ കഴിയും അതിനാൽ നമ്മൾക്ക് പി വിവരങ്ങൾ ആവശ്യമുണ്ട് ഒപ്പം ടാൻജെന്റ് വിവരങ്ങളും ആവശ്യമാണ് അതുണ്ടെങ്കിൽ സുഗമമായ ഒരു കർവ് വരയ്ക്കാൻ കഴിയും നേരത്തെ ഡ്രോയിങ് ഷീറ്റുകൾ വരയ്ക്കുന്നതുപോലെ ആയിരുന്നു സുഗമമായി കൈകൾ കൊണ്ട് കർവുകൾ വരയ്ക്കുന്നപോലെ കാരണം ഈ പോയിൻ്റിൽ നിന്ന് നിങ്ങൾ ആ ദിശയിലേക്കാണ് പോകുന്നതെന്ന് നമ്മളുടെ കാഴ്ച്ച പറയുന്നു പക്ഷേ കമ്പ്യൂട്ടറിലേക്ക് നിങ്ങൾ ഒരു ടാൻജെന്റ് നിർമ്മിക്കാൻ പഠിപ്പിക്കണം ഇൻ്റഗ്രേഷനിലൂടെ അടുത്ത പോയിന്റിലേക്ക് പോകുക ഒരുപക്ഷേ അത് ഒരു ഓയിലർ ഇൻ്റാഗ്രേഷൻ ആയിരിക്കാം അവയിൽ ചേർക്കുകയും ഒരു കർവ് നിർമ്മിക്കുകയും ചെയ്യുക ഇത് ഒരു സർഫസ് ആണെങ്കിൽ നമുക്ക് യു വി എന്നീ രണ്ട് പാരാമീറ്ററുകൾ ഉണ്ടാകും ഒരുപക്ഷേ രണ്ട് ദിശകളിലായി നമുക്ക് ഈ പാരാമെട്രിക് വ്യതിയാനം യു വി ആ സർഫസിലെ ഏതെങ്കിലും ഡാറ്റാ പോയിന്റ് എന്നിവ ഈ രണ്ട് പാരാമീറ്ററുകൾ കൊണ്ട് പ്രതിനിധീകരിക്കുന്നു വൈ യു ൻ്റെയും വി യുടെയും ഫംഗ്ഷൻ ആണ് ഇസഡ് യു ൻ്റെയും വി യുടെയും ഫംഗ്ഷൻ ആണ് കൂടാതെ ഒരു കർവ് പോയിന്റിനെക്കുറിച്ചും ഒരു ടാൻജെന്റിനെക്കുറിച്ചും നമ്മൾ എങ്ങനെ സംസാരിച്ചു എന്നതുപോലുള്ള പോയിന്റുകളിൽ ടാൻജെന്റിനെ വിവരിക്കുന്ന ഭാഗിക ഡെറിവേറ്റീവുകൾ നമ്മൾക്ക് ആവശ്യമാണ് അങ്ങനെ എനിക്ക് ഒരു സർക്കിൾ നിർമ്മിക്കാൻ കഴിയും ഒരു സർഫസ് നിർമ്മിക്കണമെങ്കിൽ ആദ്യ പോയിൻ്റ് രണ്ടാമത്തെ പോയിന്റ് ഒരുപക്ഷേ മൂന്നാം പോയിന്റ് നാലാമത്തെ പോയിന്റ് ഇവയാണ് നമ്മൾക്ക് ഉള്ള പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും വരികളിലൂടെ യോജിപ്പിക്കാൻ ആകുമെന്നതാണ് ഒരു മാർഗം പക്ഷേ നിങ്ങൾക്ക് മികച്ച വിവരണം സ്വാഭാവികമായും നിങ്ങൾക്ക് വളവിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണ് ആ വഴി താഴേക്ക് പോകണം കർവ് മുകളിലേക്ക് പോകണം കർവ് മുകളിലേക്കും താഴേക്കും പോകണം അതുവഴി നിങ്ങൾക്കത് ചേർക്കാൻ കഴിയും അതിനാൽ ഇത്തരത്തിലുള്ള തത്ത്വം നിങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് പഠിപ്പിക്കണം അതിനർത്ഥം ആ പ്രതലത്തിന്റെ ഭാഗിക ഡെറിവേറ്റീവുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അത് പി ഓഫ് യു വി ആണ് നിങ്ങൾക്ക് ഒരു സർഫസ് പി വരയ്ക്കാൻ പോകുന്ന പുതിയ കോർഡിനേറ്റ് സിസ്റ്റമായി നിങ്ങൾക്ക് ഈ യു നേയും വി യേയും ചിന്തിക്കാം അവിടെ ഡെൽ പി ഭാഗം ഡെൽ യു ഡെൽ പി ഭാഗം ഡെൽ വി എന്നിവ നിങ്ങൾ അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ ആ പോയിന്റുകളിൽ നിങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് 4 ഡാറ്റ പോയിന്റുകൾ ഉണ്ടായിരിക്കാം എന്നാൽ ഈ ടാൻജന്റുകൾ നിങ്ങൾ മാപ്പ് ചെയ്യാനോ നിർമ്മിക്കാനോ പോകുന്നു ഈ 4 പോയിന്റുകൾക്കിടയിൽ 30 പോയിന്റുകൾ കൂടി ഇൻ്റർപൊലേറ്റ് ചെയ്യുന്നു അതിനെ പ്രതിനിധീകരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ് അതാണ് ഈ സർഫസ് നിർമ്മാണത്തിന്റെ ലക്ഷ്യവും ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ചില അവശ്യ വിവരങ്ങൾ ടാൻജെന്റിനെയും നോർമലിനെയും കുറിച്ചുള്ളതാണ് കൂടാതെ ഈ യു വി യുടെ അളവ് എന്താണ് ഉദാഹരണത്തിന് നിങ്ങളുടെ ദൂരം 1 മീറ്ററിൽ നിന്ന് 500 മീറ്റർ വരെ ആകാം പക്ഷേ നിങ്ങൾ അത് കമ്പ്യൂട്ടറിലേക്ക് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപക്ഷേ പശ്ചാത്തല പ്രോഗ്രാം നിങ്ങൾ എല്ലായ്പ്പോഴും ഈ 500 നെ 0 1 തരത്തിലുള്ള കോർഡിനേറ്റ് സിസ്റ്റം പോലെയാക്കുന്നു നിങ്ങൾ ഏത് ഡാറ്റാ പോയിൻ്റ് നിർമ്മിച്ചാലും ഇത് ഇത് 1 മുതൽ 500 വരെയും 0 മുതൽ 1 വരെയും മാപ്പിംഗ് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഒരേ സബ് മൊഡ്യുൽ അല്ലെങ്കിൽ ഫംഗ്ഷനോ ചുരുക്കുകയാണ് നിങ്ങൾ എല്ലായ്പ്പോഴും ഇവയെ വിളിക്കുന്നത് എക്സ് ലിമിറ്റ്സ് വൈ ലിമിറ്റ്സ് എന്നാണ് അതിനാൽ അതിനിടയിൽ ഒരു കർവ് ഘടിപ്പിക്കുക അല്ലെങ്കിൽ 0 1 എന്നിവയ്ക്കിടയിൽ ഒരു സർഫസ് ഘടിപ്പിക്കുക വീണ്ടും 1 നേ 500 ആക്കി സ്കെയിൽ പുനക്രമീകരിക്കുക അങ്ങനെ ആണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് ഒരു കർവ് ഫിറ്റിംഗാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ ആൾജിബ്രെയിക് റിലേഷൻസ് ലീനിയർ റിലേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കും അല്ലെങ്കിൽ ഒരുപക്ഷേ നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷനുകൾ ഉപയോഗിക്കും ഉദാഹരണത്തിന് ഒരു കർവ് എക്സ് ഓഫ് യു വൈ ഓഫ് യു ഇസഡ് ഓഫ് യു ന്റെ പോയിന്റ് പാരാമെട്രിക് വ്യതിയാനമുണ്ട് ഞാൻ യു വിൽ ഒരു പോളിനോമിയൽ ഇടുവാണെങ്കിൽ കർവ് പി എന്നത് പാരാമെട്രിക് രൂപത്തിലുള്ള കർവ് ആണ് അതിനെ സി കേ ഗുണം യു കേ എന്ന് എഴുതാം ഇത് സമ്മേഷൻ കേ ക്ക് തുല്യമാണ് അതായത് സി 1 യു 1 പ്ലസ് സി 2 യു 2 പ്ലസ് സി 3 യു 3 പ്ലസ് അങ്ങനെ നിങ്ങൾക്ക് എത്ര ഡാറ്റ പോയിന്റുകളുണ്ട് അത്രയും നിങ്ങളുടെ ടാൻജെന്റുകളെ അടിസ്ഥാനമാക്കി സി 1 സി 2 സി 3 എന്നിവയ്ക്കായി ഒരാൾ ഉപയോഗിക്കേണ്ട ഭാരം എന്തായിരിക്കുമെന്ന് ഒരു റിലേഷൻ ഉണ്ടാക്കി എടുക്കുക അത് യു 1 ന്റെ 0 5 മടങ്ങ് ആയിരിക്കുമോ അതോ അതിന്റെ 0 1 മടങ്ങ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏറ്റവും മികച്ച ഉദാഹരണം ഫ്യൂറിയർ സീരീസ് ഉപയോഗിച്ച് സിനുസോയ്ഡൽ കോസൈൻ തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ വിഘടിപ്പിക്കുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും എ 0 എ 1 എ 2 എ 3 എന്ന് എഴുതുന്നു അതുപോലെ ബി 0 ബി 1 ബി 2 ബി 3 അങ്ങനെയും കൂടാതെ എ 0 എ 1 എ 2 എ 3 എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ എന്തായിരിക്കണമെന്ന് അതുപോലെ ബി 0 ബി 1 ബി 2 ബി 3 എന്തായിരിക്കണം എന്ന് നമ്മൾ ചില പ്രത്യേക വ്യവസ്ഥകൾ വെച്ച് സൂചിപ്പിക്കുന്നു നമ്മൾക്ക് അറിയാവുന്നത് സാധാരണയായി സൈൻ കോസൈൻ പോലുള്ള ഈ ഫംഗ്ഷനുകൾക്കായി നമ്മൾ ഫൂറിയർ സീരീസ് തരത്തിലുള്ള പീരിയോടിക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു പക്ഷേ ഈ ഡാറ്റാ പോയിന്റുകൾ പീരിയോടിക് ഫംഗ്ഷനുകൾ പിന്തുടരില്ല അത്തരം സന്ദർഭങ്ങളിൽ ഈ കർവ് കണക്കാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പോളിനോമിയൽ എക്സ്പാൻഷനുകളാണ് പ്രോഗ്രാമുകൾ പ്രകാരം കമ്പ്യൂട്ടർ ചെയ്യുന്നതെല്ലാം ശ്രദ്ധാപൂർവ്വം ക്രമീകരിക്കുന്നതിന് നമ്മൾ ഇവയുടെ വേയ്റ്റ്സ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നു ഒടുവിൽ ഈ ഡാറ്റാ പോയിന്റുകൾക്കൊപ്പം ഇത് ഒരു സുഗമമായ കർവ് നിർമ്മിക്കുന്നു അതുപോലെ ഈ പോളിനോമിയൽ എക്സ്പാൻഷൻ വെച്ച് നമ്മൾ സർഫസ്കൾ നിർമ്മിക്കാൻ പോകുകയാണെങ്കിൽ നമ്മൾ എക്സ് പോലുള്ള ഒരു അളവിൽ മാത്രമല്ല ചെയ്യുന്നത് നമ്മൾ അത് എക്സ് വൈ ദിശകളിൽ നമ്മുടെ യു വി പരാമെട്രിക് വ്യതിയാനങ്ങളിൽ ചെയ്യാൻ പോകുന്നു അതിനാൽ യു വി യുടെ ഫംഗ്ഷൻ ആയ പോളിനോമിയൽ സർഫസ് പി നമ്മൾ ശ്രദ്ധാപൂർവ്വം നോക്കുകയാണെങ്കിൽ ഈ സ്ഥലത്തുടനീളമുള്ള നിങ്ങളുടെ എക്സ് വൈ ഇസഡ് പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിനിധാനം ചെയ്യുന്നു നമ്മളുടെ കൈവശമുള്ള വിഭിന്നമായ പോയിന്റുകൾ ഇരട്ട സംഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ വികസിപ്പിക്കാൻ കഴിയും ഐ ലെ സംഗ്രഹം കേ ലെ സംഗ്രഹം എന്നതിനായി നിങ്ങൾ ഒരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ അത് i 1 അല്ലെങ്കിൽ i 0 മുതൽ m 1 ഡാറ്റ പോയിന്റുകൾക്ക് തുല്യമാണ് j എന്നത് 0 മുതൽ n 1 ഡാറ്റാ പോയിന്റുകൾക്ക് തുല്യമാണ് c ഓഫ് i k യുടെ ചില ഫംഗ്ഷനുകൾ വിലയിരുത്തുക നിങ്ങളുടെ പാരാമെട്രിക് യു കൊണ്ട് ഗുണിച്ചാൽ i യുടെ ഗുണിതമാണ് v യെ k കൊണ്ട് ഗുണിച്ചാൽ അങ്ങനെ ആണ് അത് നമ്മൾ വികസിപ്പിക്കുകയും c i വിവരങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കൂടാതെ i k തരത്തിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എത്ര ഡാറ്റാ പോയിന്റുകൾ ആഗ്രഹിക്കുന്നു ഒരു സർഫസ് നിർമ്മിക്കൻ പറ്റും അതിനാൽ ഈ സർഫസ് നിർമ്മാണത്തിനായുള്ള ചില പ്രധാന ആശയങ്ങൾ സെഗ്മെന്റുകൾക്കും പാച്ചുകൾക്കുമായി ചേരുന്ന പോയിന്റുകളാണ് ഒന്നുകിൽ നിങ്ങൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ചേർക്കും അല്ലെങ്കിൽ പാച്ച് വെച്ച് നമ്മൾ ചെയ്യും നമ്മളുടെ പക്കലുള്ള മിനിമം ഡാറ്റ പോയിൻ്റ് അത് നിയന്ത്രണ പാരാമീറ്ററുകൾ പോലെ ഉപയോഗിക്കുകയും അത് താഴേയ്ക്കും മുകളിലേക്കും മാറ്റുകയും ചെയ്യും ഒപ്പം ടാൻജെന്റുകളെക്കുറിച്ചും അവയുടെ മൃദുലതയും നമ്മൾക്ക് ആവശ്യമാണ് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്റർപോളേഷനുകൾ വിവരിക്കുന്നതിനുള്ള ഫംഗ്ഷനുകൾ നമ്മൾ സമന്വയിപ്പിക്കും ആദ്യം നമ്മൾ എല്ലായ്പ്പോഴും കർവ്കൾ നിർമ്മിക്കും തുടർന്ന് നമ്മൾ സർഫസ്കൾ നിർമിക്കും അതിനാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു സോഫ്റ്റ്വെയറും എല്ലായ്പ്പോഴും അത്തരം ഘട്ടം ഘട്ടമായുള്ള ഇന്റർപോളേഷനുകൾ ഉൾക്കൊള്ളുന്നു അതിനാൽ അടുത്ത ക്ലാസ്സിൽ ഹെർമൈറ്റ് ബെസിയർ മറ്റ് സർഫസ്കൾ അങ്ങനെ വ്യത്യസ്ത തരം സർഫസ്കളെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കും